ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനായി അസസ്മെന്റ് പാറ്റേണും അസസ്മെന്റ് ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയ നമ്മൾ മനസ്സിലാക്കി ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനായി ഐറ്റം ബാങ്കുകൾ രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയ മനസിലാക്കുക എന്നതാണ് ഈ യൂണിറ്റിന്റെ ഔട്ട്കം നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ഒന്ന് രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ യൂണിറ്റിന്റെ അവസാനത്തിൽ നമ്മൾ ആ പ്രശ്നങ്ങൾ വീണ്ടും സന്ദർശിക്കും ഡിസൈൻ ഘട്ടത്തിന്റെ ശരിയായ ഭാഗമായി ഐറ്റം ബാങ്കിനെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് ചില ഇൻസ്ട്രക്ടർമാർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായിരിക്കാം ശരിയാണ് ഇത് വ്യത്യാസപ്പെടാം ഈ ഘട്ടത്തിൽ ഐറ്റം ബാങ്ക് രൂപകൽപ്പന ചെയ്യുന്നതിൽ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ കാണും രണ്ടാമത്തെ പ്രശ്നം നമ്മൾ ഐറ്റം ബാങ്ക് അല്ലെങ്കിൽ ചോദ്യ ബാങ്ക് എന്ന് പറയുന്ന നിമിഷം ഫാക്കൽറ്റിയുടെ ചില വിഭാഗങ്ങൾ ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ദുർബലപ്പെടുത്തുമെന്ന് പറഞ്ഞേക്കാം ഈ യൂണിറ്റിന്റെ അവസാനത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്ക് മടങ്ങിവരും എന്നാൽ ഈ രണ്ട് പ്രശ്നങ്ങളും മാറ്റിവച്ചിരിക്കുന്നുവെന്ന് കരുതി ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനായി ഐറ്റം ബാങ്കുകൾ രൂപകൽപ്പന ചെയ്യുക എന്ന ആശയവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു ഐറ്റം ബാങ്കിനെ ചോദ്യ ബാങ്ക് എന്നും വിളിക്കുന്നു അത് കൂടുതൽ ജനപ്രിയമായ ഒരു ഉപയോഗമാണ് എന്താണ് ഒരു ഐറ്റം ബാങ്ക് കോഴ്സ് ഔട്കമുകളും കോഗ്നിറ്റീവ് നിലകളും അനുസരിച്ച് ഒരു നിർദ്ദിഷ്ട ആവശ്യത്തിനായി സംഘടിപ്പിച്ച ധാരാളം ടെസ്റ്റ് ഐറ്റങ്ങളുടെ ഒരു ശേഖരമാണിത് പ്രധാനമെന്തെന്നാൽ ഇത് ടെസ്റ്റ് ഐറ്റങ്ങളുടെ വളരെ വലിയ ശേഖരമാണ് ഗുണനിലവാരമുള്ള ഐറ്റം ബാങ്ക് അതിന്റെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ് ക്വിസുകൾ അസൈൻമെന്റുകൾ ഐറ്റ്റേണൽ ടെസ്റ്റുകൾ സെമസ്റ്റർ എൻഡ് പരീക്ഷ എന്നിവയ്ക്കായി ടെസ്റ്റ് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ആവശ്യകതകൾ നിറവേറ്റുക എന്നതാണ് ഒരു ഐറ്റം ബാങ്കിന്റെ ലക്ഷ്യം പ്രാഥമികമായി ഒരു ഐറ്റം ബാങ്കിന്റെ ഉദ്ദേശ്യം വിവിധതരം വിലയിരുത്തലുകൾക്കായി ഗുണനിലവാരമുള്ള അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നതാണ് ക്വിസുകൾ അസൈൻമെന്റുകൾ ഐറ്റ്റെർണൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ CIE SEE എന്നിവയുടെ ടെസ്റ്റുകൾ മറ്റൊരു പ്രധാന കാര്യം ഒരു ഐറ്റം ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റങ്ങൾ അവലോകനം ചെയ്യണം എന്നതാണ് ഐറ്റം ബാങ്കിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുമുമ്പ് അവ അവലോകനം ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയ ഉണ്ടായിരിക്കണം ഐറ്റം ബാങ്കിൽ ഉൾപ്പെടുന്ന ഐറ്റങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കാനാണ് അവലോകനം ഐറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവയാകാം ഭാഷയുടെ പ്രശ്നങ്ങൾ ചോദ്യം പദാവലിയിലെ അവ്യക്തതകൾ ചോദ്യം ഉന്നയിക്കുന്ന രീതിയിൽ സാങ്കേതിക പഴുതുകൾ എന്നിവയൊക്കെ ഉണ്ടാകാം ഐറ്റങ്ങൾ ഐറ്റം ബാങ്കിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് അവ അവലോകനം ചെയ്യുന്നതിന് ഒരു പ്രക്രിയ ആവശ്യമാണ് ഒരു ഐറ്റം ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റങ്ങൾ ഒരു അവലോകന പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഐറ്റം ബാങ്കിൽ ഈ ഐറ്റങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു നിർദ്ദിഷ്ട അസ്സസ്സ്മെന്റ് ഉപകരണം രചിക്കുമ്പോൾ നമുക്ക് ചില അധിക വിവരങ്ങൾ ആവശ്യമാണ് ഐറ്റങ്ങൾ നിരവധി പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ടാഗുചെയ്യുന്നു ഐറ്റങ്ങൾ ടാഗുചെയ്യേണ്ട പാരാമീറ്ററുകൾ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കാണും ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം രചിക്കുന്നതിൽ ഐറ്റങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഇത് ആവശ്യമാണ് സോഫ്റ്റ്വെയർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു ഓട്ടോമേറ്റഡ് രീതിയിൽ ടെസ്റ്റ് ഉപകരണങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ ഐറ്റം ബാങ്ക് ഒരു ഡാറ്റാബേസായി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ സൃഷിടിക്കണമെങ്കിൽഐറ്റം ബാങ്ക് വ്യക്തമായും ഒരുതരം ഡാറ്റാബേസായി ക്രമീകരിച്ചിരിക്കണം ഒരാൾ സ്വയം എഴുതി ഉപയോഗിക്കുന്നുള്ളൂവെങ്കിലും അത് എളുപ്പമാക്കുന്നതിന് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ ഐറ്റം ബാങ്ക് സഹായിക്കും നമുക്ക് ഈ ഐറ്റം ബാങ്കുകൾ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് നല്ല നിലവാരമുള്ള അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ രചിക്കാൻ കഴിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള വിവിധങ്ങളായ സർവകലാശാലകളിലും കോളേജുകളിലും സൃഷ്ടിക്കപ്പെട്ട ധാരാളം അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ പ്രത്യേകിച്ച് സെമസ്റ്റർ അവസാന പരീക്ഷാ പേപ്പറുകൾ ഇന്ന് ലഭ്യമാണ് നിരവധി സ്ഥാപനങ്ങളിൽ അവ വെബിൽ ലഭ്യമാണ് ഇന്റെർണൽ ഇവാല്യുവേഷൻ ടെസ്റ്റ് പേപ്പറുകൾ പോലും പല കേസുകളിലും ലഭ്യമാണ് വളരെ വ്യക്തമായി കാണാവുന്ന ചില പരിമിതികളുണ്ട് ഈ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഉപകരണം രചിക്കുന്നതിന് ഐറ്റം ബാങ്ക് ആവശ്യമാണ് നിരവധി ഐറ്റം ബാങ്കുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സാധാരണ പരിമിതികൾ എന്തൊക്കെയാണ് ഭാഷാ അവ്യക്തതകളും സാങ്കേതിക കൃത്യതയില്ലായ്മയും വീണ്ടും ഇത്കൊണ്ട് ഭൂരിഭാഗം ഉപകരണങ്ങളും അങ്ങനെയാണെന്നോ എല്ലാ ഉപകരണങ്ങളും ഇതുപോലെയാണെന്നോ പറയാനാവില്ല എന്നാൽ നിരവധി അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾക്ക് ഈ പരിമിതികളുണ്ടെന്നത് ശരിയാണ് ഉത്തരമെഴുതാൻ ആവശ്യമായ സമയവും ചോദ്യത്തിന്റെ വ്യാപ്തിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നിർദ്ദിഷ്ട അസ്സസ്സ്മെന്റ് ഉപകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു നിർദ്ദിഷ്ട ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു ശരാശരി വിദ്യാർത്ഥി നിശ്ചിത സമയം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആവശ്യമുള്ള യഥാർത്ഥ സമയം ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ അതിലും കുറവുമായിരിക്കാം മിക്കപ്പോഴും ഇത് ഊഹിച്ച സമയത്തേക്കാൾ വളരെ കൂടുതലാവാറാണ് പതിവ് ഇത് ചോദ്യപേപ്പറിനെ വളരെ ദൈർഘ്യമേറിയതാക്കുന്നു സിഒകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ വൈജ്ഞാനിക തലങ്ങൾ എന്നിവയിലുടനീളം ചോദ്യങ്ങളുടെ അസമമായ വിതരണം സിഒകളിലുടനീളം ചോദ്യങ്ങളുടെ അസമമായ വിതരണം തന്നിരിക്കുന്ന ഇന്റെർണൽ ടെസ്റ്റിൽ മൂന്ന് CO കൾ ഉൾക്കൊള്ളുന്നു CO1 CO2 CO3 എന്നാൽ യഥാർത്ഥത്തിൽ ആ ഉപകരണം പ്രധാനമായും CO1 CO2 എന്നിവ മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂക്ലാസ് മുറിയിൽ CO3 ക്കായി ഇൻസ്ട്രക്ടർ ചെലവഴിച്ച സമയവുമായി ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ CO3 ആ അസ്സസ്സ്മെന്റ് ഉപകരണത്തിൽ നാമമാത്രമായ ശ്രദ്ധ ആയിരിക്കാം നേടിയത് കോഗ്നിറ്റീവ് ലെവലുകളിലുടനീളമുള്ള അസമമായ വിതരണം സിഒകൾ എല്ലാം അപ്ലൈ തലത്തിലാണ് പക്ഷേ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് തലത്തിലാണ് അല്ലെങ്കിൽ റിമമ്പർ തലത്തിലാണ് താഴ്ന്ന തലങ്ങളിൽ നമുക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല ഒരു സിഒ അപ്ലൈ തലത്തിലാണെങ്കിൽ ചില ഐറ്റംങ്ങൾറിമമ്പർ അണ്ടർസ്റ്റാൻഡ് പോലെ കുറഞ്ഞ വൈജ്ഞാനിക തലങ്ങളിൽ ചോദിക്കാം എന്നത് ശരിയാണ് എന്നാൽ മിക്ക ഐറ്റങ്ങളും താഴ്ന്ന നിലയിലാണെങ്കിൽ ഉപകരണത്തിന്റെ ഗുണനിലവാരം സംശയിക്കപ്പെടും അസമമായ വൈഷമ്യ ലെവലുകൾ ചോദ്യം ഒരു പ്രത്യേക സിഒ കോഗ്നിറ്റീവ് ലെവൽ എന്നിവയുമായി യോജിക്കുന്നു പക്ഷേ വൈഷമ്യ ലെവലുകൾ നിരവധി ചോദ്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതും സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ചില സാഹചര്യങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും പഠന നിലവാരം കുറയ്ക്കുന്നതിന് കാരണമാകുന്ന ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് അസ്സസ്സ്മെന്റ് ഐറ്റങ്ങളുടെ വൈജ്ഞാനിക നിലവാരം താഴ്ന്ന നിലയിലേക്ക് കുറയ്ക്കപ്പെടുന്നു ഈ പരിമിതികളെല്ലാം മറികടക്കുന്നതിന് അവലോകനം ചെയ്ത ഒരു ഐറ്റം ബാങ്ക് ഉണ്ടായിരിക്കുക എന്നത് സൌകര്യപ്രദമാണ് എല്ലാ ഐറ്റങ്ങളും അവ അവലോകനം ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നുപോവുകയും ഗുണനിലവാരമുള്ള ഐറ്റങ്ങൾ മാത്രം ഐറ്റം ബാങ്കിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്നതിന് ഗണ്യമായ ശ്രമം ആവശ്യമാണെന്നത് ശരിയാണ് പ്രത്യേകിച്ചും ആദ്യമായി ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുമ്പോൾ ഗണ്യമായ ശ്രമം നടക്കുന്നു ആദ്യമായി ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്നതിന് ഫാക്കൽറ്റികൾക്ക് ഗുണനിലവാരമുള്ള സമയം പ്രത്യേകം ചെലവഴിക്കേണ്ടതുണ്ട് പിന്നീടിതിന് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരില്ല കാരണം നമുക്ക് ഐറ്റം ബാങ്ക് പരിഷ്കരിക്കേണ്ടതു മാത്രമേ ഉള്ളൂ ചില ഐറ്റങ്ങൾ ചേർക്കാം ചില ഐറ്റങ്ങൾ കളയാം എന്നാൽ ആദ്യമായി നല്ല ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്നതിന് ഗണ്യമായ ശ്രമം ആവശ്യമാണ് എന്നിരുന്നാലും ഒരു ഐറ്റം ബാങ്ക് ഉണ്ടെങ്കിൽ നിരവധി ഗുണങ്ങളുണ്ട് മികച്ച നിലവാരമുള്ള ക്വിസുകൾ ക്ലാസ് ടെസ്റ്റുകൾ അസൈൻമെന്റുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു സെമസ്റ്റർ അവസാന പരീക്ഷാ പേപ്പർ രൂപകൽപ്പന ചെയ്യുന്നതിൽ പോലും ഫാക്കൽറ്റിക്ക് ഗണ്യമായ സമയം ലാഭിക്കാൻ കഴിയും മികച്ചതും ആകർഷകവുമായ ഗുണനിലവാരമുള്ള അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ സജ്ജീകരിക്കുമ്പോൾ സർവകലാശാലാ തലത്തിലുള്ള പേപ്പർ സെറ്ററുകൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും നമുക്ക് ഒരു ഐറ്റം ബാങ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയായ ഡാറ്റാബേസായി സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അസ്സസ്സ്മെന്റും ഇവാല്യുവേഷനും സൃഷ്ടിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില അല്ലെങ്കിൽ എല്ലാ പ്രക്രിയകളും കമ്പ്യൂട്ടർവത്കരിക്കാനാകും ഇത് വീണ്ടും ഗണ്യമായ സമയം ലാഭിക്കും വാസ്തവത്തിൽ ഇന്ന് നിങ്ങൾ പല സ്വയംഭരണ സ്ഥാപനങ്ങളിലും അല്ലാത്തവയിലും സർവകലാശാലകളിലും നോക്കിയാൽ വാസ്തവത്തിൽ അവരുടെ സമയത്തിന്റെ ഒരു പ്രധാന ഭാഗം പരീക്ഷാ പ്രക്രിയയ്ക്കായി നീക്കിവച്ചിരിക്കുകയാണ് ചോദ്യപേപ്പറുകൾ സജ്ജീകരിക്കുക അവ വിലയിരുത്തുക ഫലം പ്രഖ്യാപിക്കുക ഇവയെല്ലാം ഗണ്യമായ സമയമെടുക്കുന്നു കൂടാതെ നിരവധി പ്രയത്നങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കായി മാത്രം നീക്കിവയ്ക്കുകയും ചെയ്യുന്നു ലഭ്യമായനിലവാരമുള്ള ഐറ്റം ബാങ്ക് ഒരു നല്ല ഡാറ്റാബേസായി ഇലക്ട്രോണിക് രീതിയിൽ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഈ പ്രക്രിയകളിൽ പലതും കമ്പ്യൂട്ടർവത്കരിക്കാനാകും ഐറ്റം ബാങ്കുകളുടെ തരങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ അടിസ്ഥാനപരമായി രണ്ട് തരം കോളേജുകളുണ്ടെന്ന് നമുക്കറിയാം ടയർ 1 ടയർ 2 സ്ഥാപനങ്ങൾ ടയർ 1 സ്ഥാപനങ്ങൾ സ്വയംഭരണാധികാരമുള്ളവയാണ് അവയ്ക്ക് അവരുടേതായ അസ്സസ്സ്മെന്റ് സംവിധാനങ്ങളും പ്രക്രിയകളും ഉണ്ട് അതേസമയം ടയർ 2 സ്ഥാപനങ്ങളിൽ സാധാരണയായി സിഐഇ അവരുടെ പരിധിയിലാണ് പക്ഷേ SEE സർവ്വകലാശാലയാണ് നോക്കുന്നത് അതിനാൽ ഐറ്റം ബാങ്കുകൾ പ്രാഥമികമായി ക്വിസുകൾ അസൈൻമെന്റുകൾ ക്ലാസ് ടെസ്റ്റുകൾ എന്നിവയ്ക്കാണ് ഉള്ളത് ഐറ്റം ബാങ്കുകൾ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഒരു അധ്യാപകനോ ഒരു കൂട്ടം അധ്യാപകരോ ആണ് ചില സാഹചര്യങ്ങളിൽ കോഴ്സ് ധാരാളം വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 10 വിഭാഗങ്ങൾ ആകാം 6 7 8 ഫാക്കൽറ്റികൾ ഒരേ കോഴ്സ് പഠിപ്പിക്കുന്നു അവരിൽ ഒരാൾ കോഴ്സ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു അധ്യാപക സംഘത്തിന് ഐറ്റം ബാങ്ക് കൈകാര്യം ചെയ്യാൻ കഴിയും SEE ക്കായുള്ള ഐറ്റം ബാങ്കുകൾ ഒരു ടയർ 2 സ്ഥാപനത്തിനായി സർവ്വകലാശാലാ തലത്തിൽ സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഒരു ടയർ 1 സ്ഥാപനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ തന്നെ സമ്മേറ്റിവ് ഫോർമാറ്റീവ് അസസ്മെന്റ് ഉപകരണങ്ങൾക്കായുള്ള ഐറ്റം ബാങ്കുകൾ ഒരു അധ്യാപകനോ ഒരു കൂട്ടം അധ്യാപകരോ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഒരു ടയർ 1 സ്ഥാപനത്തിൽ CIE മാത്രമല്ല SEE കൈകാര്യം ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലാണ് ക്വിസുകൾ അസൈൻമെന്റുകൾ ക്ലാസ് ടെസ്റ്റുകൾ സെമസ്റ്റർ എൻഡ് പരീക്ഷകൾ എന്നിവ പോലുള്ള സാധ്യമായ ചില അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾക്കായി ഉള്ള ഐറ്റം ബാങ്കുകളെ നോക്കാം ഇത് മാതൃക മാത്രമാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും യോജിക്കുന്ന തരത്തിൽ ഇവയെല്ലാം ചെയ്യുന്നതിനുള്ള ഒരു അൽഗോരിതം രീതി പോലെ ഒന്നില്ല അസ്സസ്സ്മെന്റ് പ്രക്രിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിൽ കോഴ്സുകൾ തമ്മിൽ ഇൻസ്ട്രക്ടറുമാർ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം എല്ലാവർക്കും പാകമാകുന്ന കുപ്പായം പോലെ ഒന്ന് തീർച്ചയായും സംഭവിക്കില്ല ഇത് നിയമപരമായി ചെയ്യേണ്ടുന്ന ഒന്നാണെന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഗുണനിലവാരമുള്ള ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യമായ മാർഗ്ഗങ്ങൾ എന്താണെന്നും വിവിധ തരം അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾക്കായി ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്ന പ്രക്രിയയിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എങ്ങനെ പോകാമെന്നതിന്റെയും ഒരു സൂചന മാത്രമാണ് ഇത് ക്വിസുകൾക്കായുള്ള ഐറ്റം ബാങ്കുകൾ ഫോർമാറ്റീവ് സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിനും ക്വിസുകൾ ഉപയോഗിക്കുന്നുണ്ട് ക്വിസുകളിൽ നേടിയ മാർക്ക് വിദ്യാർത്ഥികളുടെ ഗ്രേഡുകളിലേക്ക് പോകാം ചില സമയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി നമ്മൾ ഫോർമാറ്റീവ് ഡയഗ്നോസ്റ്റിക് ആവശ്യങ്ങൾക്കായി മാത്രം ക്വിസുകൾ നടത്താം ക്വിസുകളിൽ സാധാരണയായി 5 മുതൽ 10 വരെ ഐറ്റങ്ങൾ ഒരു മാർക്ക് ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും സാധ്യമാണ് പക്ഷേ അത് താരതമ്യേന പ്രസിദ്ധമല്ല സാധാരണയായി കാണുന്നത് 5 മുതൽ 10 വരെ ഒറ്റ മാർക്ക് ചോദ്യങ്ങൾ ആണ് സാധാരണയായി ഒരു ക്വിസിലെ ചോദ്യങ്ങൾ റിമമ്പർ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വൈജ്ഞാനിക നിലയിൽ ഉള്ളവയാണ് ക്വിസ് ചോദ്യങ്ങൾ അപ്ലൈ തലത്തിൽ എഴുതാൻ കഴിയില്ലെന്നത് നിഷേധിക്കുന്നതല്ല അപ്ലൈ തലത്തിൽ ഒരു ചോദ്യം രചിക്കുന്നത് സാധ്യമാണ് പക്ഷേ ഇത് താരതമ്യേന കാണാറില്ല ക്വിസ് ചോദ്യങ്ങൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് റിമമ്പർ അണ്ടർസ്റ്റാൻഡ് തലങ്ങളാണ് ക്വിസ് ഐറ്റങ്ങൾക്ക് ഒന്നിലധികം ചോയ്സ് ഉള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം തിരഞ്ഞെടുപ്പുകൾ ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടാം വിട്ട ഭാഗം പൂരിപ്പിക്കുക അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ക്രമീകരിക്കുക അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക ചിലപ്പോൾ ഒരൊറ്റ വരിയിൽ ഹ്രസ്വമായ ഉത്തരങ്ങൾ എഴുതേണ്ടുന്നവ ഇവയൊക്കെ സാധ്യമാണ് പ്രാഥമികമായി ക്വിസുകളിൽ ഒരാൾക്ക് നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണിവ എല്ലാ ക്വിസ് ഐറ്റങ്ങളും പഠന മാനേജുമെന്റ് സിസ്റ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുപോലെ സ്വപ്രേരിതമായി വിലയിരുത്താൻ കഴിയുന്ന വിഭാഗങ്ങളിൽപ്പെട്ടതാണെങ്കിൽ ക്വിസുകൾ വളരെ സൌകര്യപ്രദമായി കൈകാര്യം ചെയ്യാനും വിലയിരുത്താനും കഴിയും ഒന്നിലധികം ചോയ്സ് ഉള്ള ചോദ്യങ്ങൾ വിട്ട ഭാഗം തിരഞ്ഞെടുത്ത വാക്കുകൾ കൊണ്ട് പൂരിപ്പിക്കുക അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ക്രമീകരിക്കുക അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നീ രീതിയിലുള്ള ചോദ്യങ്ങൾ ആണെങ്കിൽ തുടർന്ന് പഠന മാനേജുമെന്റ് സിസ്റ്റത്തിന് ഉത്തരങ്ങൾ സ്വപ്രേരിതമായി വിലയിരുത്താൻ കഴിയും ഈ സാഹചര്യത്തിൽ ക്വിസ് നടത്തിക്കഴിഞ്ഞാൽ ഒട്ടും കാലതാമസമില്ലാതെ ക്ലാസ് മുറിയിൽ ഫലങ്ങൾ ചർച്ച ചെയ്യാൻ ഇൻസ്ട്രക്ടർക്ക് കഴിയും ഇത് ഒരു ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ ഉദ്ദേശ്യവും നിറവേറ്റും ക്വിസ് നടത്താനും ഫലങ്ങൾ പട്ടികപ്പെടുത്താനും അവ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ലാസ് മുറിയിൽ ചർച്ചചെയ്യാനും കഴിയും അതിനാൽ ക്വിസുകൾക്കായി ഒരു ഐറ്റം ബാങ്ക് ഉണ്ടായിരിക്കുന്നതിൽ കൃത്യമായ നേട്ടമുണ്ട് ക്വിസുകൾക്കായി ഐറ്റം ബാങ്കിൽ തുടക്കത്തിൽ എത്ര ഐറ്റങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു നിർബന്ധമായും ഇത്ര തന്നെ വേണം ഇന്നൊരു നിയമമില്ല ഇത് ഐറ്റം ബാങ്കിന്റെ ഉത്തരവാദിത്തമുള്ള ഇൻസ്ട്രക്ടറുടെയോ ഇൻസ്ട്രക്ടർമാരുടെ ഗ്രൂപ്പിന്റെയോ കയ്യിലുള്ള വിധിന്യായമാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ ഒരു നയമുണ്ടായിരിക്കാം പക്ഷേ ഒരു മാതൃക രീതിയിൽ കുറഞ്ഞത് പ്രാരംഭ ഐറ്റം ബാങ്കിൽ അസ്സസ്സ്മെന്റ് ഉപകരണത്തിന് ശരിക്കും ആവശ്യമുള്ള ഐറ്റങ്ങളുടെ അഞ്ചിരട്ടി ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ലഭിക്കും അഞ്ച് എന്നത് ഒരു മാന്ത്രിക സംഖ്യ അല്ല അത് നാല് തവണ ആകാം ആറ് തവണ ആകാം ഒരേ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ഫാക്കൽറ്റികളുണ്ടെങ്കിൽ ആവശ്യമുള്ള ഐറ്റത്തിന്റെ പത്തിരട്ടി ഐറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എല്ലാത്തരം വ്യതിയാനങ്ങളും സാധ്യമാണ് ചർച്ച നിർദ്ദിഷ്ടമാക്കുന്നതിന് മൊത്തം ഐറ്റങ്ങളുടെ എണ്ണം ആവശ്യമായ ഐറ്റങ്ങളുടെ അഞ്ചിരട്ടിയായ ഒരു പ്രാരംഭ ഐറ്റം ബാങ്ക് നമ്മൾ സൃഷ്ടിക്കുമെന്ന് കരുതുക ഒരു സെമസ്റ്ററിൽ നമുക്ക് അഞ്ച് ക്വിസുകളുണ്ടെന്നും ഓരോ ക്വിസിനും അഞ്ച് ചോദ്യങ്ങളുണ്ടെന്നും നമ്മൾ കരുതുന്നുവെങ്കിൽ ഇതിനർത്ഥം ക്വിസിനായി നമുക്ക് 25 ചോദ്യങ്ങളോ 25 ഐറ്റങ്ങളോ ആവശ്യമാണ്അതിന്റെ അഞ്ചിരട്ടി ഏകദേശം 125 മടങ്ങ് വരും അതിനാൽ പ്രാരംഭ ഘട്ടത്തിൽ ക്വിസുകൾക്കായി നമുക്ക് ഏകദേശം 125 ഐറ്റങ്ങൾ ഐറ്റം ബാങ്കിൽ ഉണ്ടായിരിക്കണം തുടർന്നും ഐറ്റം ബാങ്കുകൾ വലുതാകും പക്ഷേ ആവശ്യമായ സംഖ്യയുടെ അഞ്ചിരട്ടിയെങ്കിലും നമ്മൾ ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുകയാണെങ്കിൽ യഥാർത്ഥ അസ്സസ്സ്മെന്റ് ഉപകരണം സജ്ജീകരിക്കുന്നതിന് നമുക്ക് ഉചിതമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും ചോദ്യ ക്വിസ് ഐറ്റം ബാങ്കിലെ ഐറ്റങ്ങൾ ക്ലാസ് സെഷന്റെ എണ്ണത്തിന് ആനുപാതികമായി എല്ലാ സിഒകൾക്കുമായി വിതരണം ചെയ്യണം ഇവിടെ വീണ്ടും ഒരു നിർദ്ദിഷ്ട ഉദാഹരണം പറഞ്ഞാൽ CIE സമയത്ത് നടത്തുന്ന ക്വിസുകൾ എല്ലാ CO കളെയും ഉൾക്കൊള്ളണമെന്നില്ല ഒരു ഉദാഹരണം എടുത്താൽ സിഒകളുടെ ഒരു ഉപസെറ്റ് മാത്രം ഉൾക്കൊള്ളുന്നതിനായി ഒരു ഇൻസ്ട്രക്ടർ ക്വിസുകൾ രൂപകൽപ്പന ചെയ്തേക്കാം പക്ഷേ മറ്റൊരു സന്ദർഭത്തിൽ ഇൻസ്ട്രക്ടർ സിഒകളുടെ മറ്റൊരു ഉപസെറ്റ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഐറ്റം ബാങ്കിൽ എല്ലാ സിഒകളും ഉൾക്കൊള്ളുന്ന ഐറ്റങ്ങൾ ഉണ്ടായിരിക്കണം അതിനാൽ ആ ഐറ്റം ബാങ്കിൽ നിന്നും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആസൂത്രണം ചെയ്യുന്ന സിഒകളുമായി ബന്ധപ്പെട്ട ഐറ്റങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും ക്വിസ് ഐറ്റം ബാങ്കിലെ ഐറ്റങ്ങൾ എല്ലാ സിഒകൾക്കും വിതരണം ചെയ്യേണ്ടതാണ് ഇതിന്റെ എണ്ണം ഈ സിഒകൾക്കായി നീക്കിവച്ചിരിക്കുന്ന ക്ലാസ് റൂം സെഷനുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും സാധ്യമെങ്കിൽ അതിൽ കൂടുതലും ആകാം ഒരു എൽഎംഎസിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഐറ്റങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിൽ അതേ എൽഎംഎസിന്റെ സഹായത്തോടെ ക്വിസുകൾ എളുപ്പത്തിൽ നടത്താനും വിലയിരുത്താനും കഴിയും വാസ്തവത്തിൽ ക്വിസ് തന്നെ ഒരു എൽഎംഎസ് ഐറ്റം ബാങ്കിൽ നിന്ന് രചിക്കാൻ കഴിയും നമുക്ക് ചില മാനദണ്ഡങ്ങൾ നൽകാം ക്രമരഹിതമായി പാറ്റേൺ അനുസരിച്ച് എൽഎംഎസിന് യാന്ത്രികമായി ഒരു ക്വിസ് ഉപകരണം സൃഷ്ടിക്കാൻ കഴിയും അത് സമയം കുറയ്ക്കും സ്വപ്രേരിതമായി സൃഷ്ടിച്ച ക്വിസ് ഇൻസ്ട്രക്ടർക്ക് കൂടുതൽ അവലോകനം ചെയ്യാനും ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും കഴിയുമെന്ന് വ്യക്തം മുഴുവൻ പ്രക്രിയയും വളരെ യാന്ത്രികമാണെന്ന് പറയുന്ന ഒന്നും തന്നെയില്ല ഇൻസ്ട്രക്ടറുടെ സ്വാതന്ത്ര്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നില്ല കൂടാതെ യാന്ത്രികമായി സൃഷ്ടിക്കുന്ന ഉപകരണം പരിഷ്കരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇൻസ്ട്രക്ടർക്ക് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലുടനീളം ഒരേ കോഴ്സ് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിഗത അധ്യാപകരോ അധ്യാപകരുടെ ഗ്രൂപ്പോ ആണ് ക്വിസുകൾക്കായുള്ള ഐറ്റം ബാങ്കുകൾ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ഇത് CIE യ്ക്കാണ് അതിനാൽ ക്വിസുകൾക്കായുള്ള ഐറ്റം ബാങ്കുകൾ വ്യക്തിഗത അധ്യാപകരാണ് സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അസൈൻമെന്റുകൾക്കായുള്ള ഐറ്റം ബാങ്കുകൾ അസൈൻമെന്റുകൾ സാധാരണഗതിയിൽ ക്ലാസ് റൂമിന് പുറത്ത് വിദ്യാർത്ഥികൾ സ്വന്തമായി ചെയ്യുന്നു എന്ന് അധ്യാപകർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഹോം അസൈൻമെന്റുകൾ എടുക്കുക അടിസ്ഥാന ആശയങ്ങളും നടപടിക്രമങ്ങളും മനസിലാക്കി അസൈൻമെന്റ് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് സാധാരണയായി വിദ്യാർത്ഥികൾക്ക് ഗണ്യമായ സമയം ആവശ്യമാണ് കാരണം മിക്കപ്പോഴും അസൈൻമെന്റുകളിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഉയർന്ന വൈജ്ഞാനിക തലത്തിലുള്ളതാണ് അസൈൻമെൻറുകൾക്ക് പ്രധാനമായും മൂന്ന് ഐറ്റങ്ങൾ വരെ ഉണ്ടായിരിക്കും ചിലപ്പോൾ രണ്ടോ ഒന്നോ മാത്രമേ ഉണ്ടാകൂ ചിലപ്പോൾ ഇത് വൈജ്ഞാനിക തലത്തിലുള്ള അപ്ലൈ പോലെ നാല് പോലും ആകാം ചില സന്ദർഭങ്ങളിൽ സങ്കീർണമായ പ്രശ്നങ്ങളും അനലൈസ്ഇവാല്യുവേറ്റ് ക്രിയേറ്റ് പോലെ ഉയർന്ന തലങ്ങളിലുള്ള ഐറ്റങ്ങളും അസൈൻമെന്റുകളായി നൽകാം കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്ലാസ് ടെസ്റ്റുകൾ പോലുള്ള പരിമിതമായ സമയ വിലയിരുത്തലുകളിൽ അനലൈസ്ഇവാല്യുവേറ്റ് ക്രിയേറ്റ് പോലെയുള്ള വൈജ്ഞാനിക തലങ്ങളിൽ നൽകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ തലത്തിൽ ഐറ്റങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ അവ അസൈൻമെന്റുകളിൽ ഉൾപ്പെടുത്താം സന്ദർഭത്തെ ആശ്രയിച്ച് ചില അസൈൻമെന്റുകളിൽ റിമമ്പർ അണ്ടർസ്റ്റാൻഡ് പോലെ താഴ്ന്ന വൈജ്ഞാനിക നിലവാരത്തിലുള്ള ഐറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും ഇത് സാധാരണമല്ല പ്രത്യേക സി യെക്കുറിച്ച് നന്നായി മനസിലാക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഈ ഐറ്റങ്ങളിലൂടെ കടന്നുപോകണമെന്ന് ഇൻസ്ട്രക്ടർ കരുതുന്നുവെങ്കിൽ തത്ത്വത്തിൽ താഴ്ന്ന നിലകൾ ഉൾക്കൊള്ളുന്ന ഒരു അസൈൻമെന്റ് സാധ്യമാണ് അസൈൻമെന്റുകൾക്കായുള്ള ഐറ്റം ബാങ്ക് സൂചനാ രീതിയിലാണ് ശരാശരി ഒരു അസൈൻമെന്റിൽ മൂന്ന് ഐറ്റങ്ങൾ ഉണ്ട് എങ്കിൽ ഒരു സെമസ്റ്ററിൽ മൂന്ന് അസൈൻമെന്റുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് 45 ഐറ്റങ്ങൾ ആവശ്യമാണ് 9 ഐറ്റങ്ങൾ x 5 തവണ 45 ഐറ്റങ്ങൾ അല്ലെങ്കിൽ 45 ന് മുകളിൽ ഈ 45 എന്നത് മാന്ത്രിക സംഖ്യയൊന്നുമില്ല നമുക്ക് ഒരു വലിയ ഐറ്റം ബാങ്കും ആകാം കോഴ്സിന്റെ എല്ലാ സി കളെയും ബന്ധപ്പെട്ട വൈജ്ഞാനിക തലങ്ങളിൽ അഭിസംബോധന ചെയ്യുന്നതിനായി ഐറ്റങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കണം ഒരു നിർദ്ദിഷ്ട അസൈൻമെന്റ് എല്ലാ സിഒകളെയും ഉൾക്കൊള്ളണമെന്നില്ല വാസ്തവത്തിൽ കോഴ്സ് ഡെലിവറിയുടെ ഒരു പ്രത്യേക സമയത്ത് എടുത്ത എല്ലാ അസൈൻമെന്റുകളും എല്ലാ സിഒകളെയും ഉൾക്കൊള്ളുന്നില്ലായിരിക്കാം എന്നാൽ എല്ലാ സിഒകളും ഉൾക്കൊള്ളുന്നതിനായി ഐറ്റം ബാങ്ക് രൂപകൽപ്പന ചെയ്തിരിക്കണം അതുവഴി തിരഞ്ഞെടുത്ത സിഒകളും അവയുടെ വൈജ്ഞാനിക തലങ്ങളും ഉപയോഗിച്ച് ഒരു അസൈൻമെന്റ് സൃഷ്ടിക്കാൻ ഇൻസ്ട്രക്ടർക്ക് സ്വാതന്ത്ര്യമുണ്ട് ക്ലാസ് ടെസ്റ്റുകൾക്കായി നമ്മൾ എങ്ങനെ ഐറ്റം ബാങ്കുകൾ സൃഷ്ടിക്കും എല്ലാ ടെസ്റ്റുകളും ടയർ 1 ടയർ 2 സ്ഥാപനങ്ങളിൽ കോഴ്സിന്റെ അധ്യാപകർ രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്നു ഒരു പ്രത്യേക കോഴ്സ് ഒന്നിലധികം വിഭാഗങ്ങളിലേക്ക് നിരവധി ഫാക്കൽറ്റികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണയായി എല്ലാ വിഭാഗങ്ങളിലും ടെസ്റ്റുകൾ ആകർഷകമാണെന്ന് ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് കോർഡിനേറ്റർ ഉണ്ടാവും അതിനാൽ കോഴ്സ് കോർഡിനേറ്ററും ബന്ധപ്പെട്ട ഫാക്കൽറ്റികളും ടെസ്റ്റുകൾക്ക് ഉത്തരവാദികളാണെന്ന് നമുക്ക് പറയാൻ കഴിയും 90 മിനിറ്റ് പരീക്ഷ സാധ്യമാണെങ്കിലും സാധാരണയായി ഇന്റെർണൽ ടെസ്റ്റുകളുടെ ദൈർഘ്യം 60 മിനിറ്റാണ് ടെസ്റ്റുകൾ സാധാരണയായി 15 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് എന്നിങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ചിലപ്പോൾ 50 മാർക്കിന് പോലും സിഐഇ നേട്ടങ്ങൾ കണക്കുകൂട്ടുന്നതിനുള്ള ടെസ്റ്റുകൾക്ക് യഥാർത്ഥ വെയിറ്റേജിനെ ആശ്രയിച്ച് അവ ഉചിതമായി കുറയ്ക്കുന്നു ടെസ്റ്റിന് നൽകിയ ശതമാനം വെയിറ്റേജുകൾ അനുസരിച്ച് നേട്ടങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് കൂടുതൽ സൌകര്യപ്രദമാണ് കാരണം 15 20 അല്ലെങ്കിൽ 30 മാർക്ക് ഉപയോഗിച്ച് ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം രൂപകൽപ്പന ചെയ്യുന്നത് കൂടുതൽ സൌകര്യപ്രദമായിരിക്കും സാധാരണയായി ഡിസൈൻ ഈ ലെവലിൽ സംഭവിക്കുകയും നേട്ടങ്ങൾ ഉചിതമായി കുറയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു ടെസ്റ്റ് അഭിസംബോധന ചെയ്യുന്ന സിഒകൾ ടെസ്റ്റിന്റെ ഷെഡ്യൂൾ സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു ടെസ്റ്റുകളിൽ സിഒകളെ ഉൾപ്പെടുത്താൻ ഇൻസ്ട്രക്ടർ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്നത് അസ്സസ്സ്മെന്റ് പദ്ധതിയുടെ ഭാഗമാണ് ഒരു ടെസ്റ്റ് അഭിസംബോധന ചെയ്യുന്ന സിഒകൾ പരിശോധനയുടെ ഷെഡ്യൂൾ ചെയ്ത സമയത്തെയും അസ്സസ്സ്മെന്റ് പദ്ധതിയെയും ആശ്രയിച്ചിരിക്കുന്നു ബന്ധപ്പെട്ട സിഒകൾക്ക് നൽകുന്ന വെയിറ്റേജുകൾ ഐറ്റങ്ങളുടെ വൈജ്ഞാനിക നിലകൾ ഐറ്റങ്ങളുമായി ബന്ധപ്പെട്ട മാർക്കുകൾ എന്നിവയെല്ലാം അധ്യാപകർ പൂർണ്ണമായും തീരുമാനിക്കുന്നു യഥാർത്ഥത്തിൽ ടെസ്റ്റുകൾ നടത്തുന്ന രീതിയിൽ കാര്യമായ വ്യത്യാസമുണ്ട് ടെസ്റ്റ് അസ്സസ്സ്മെന്റ് പാറ്റേണിന് ഉദാഹരണം രണ്ട് ടെസ്റ്റുകൾ ആണുള്ളത് ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 1 മൂന്ന് CO കളെ ഉൾകൊള്ളുന്നു CO1 CO2 CO3 ടെസ്റ്റ് 2 രണ്ടു CO കലെ ഉൾകൊള്ളുന്നു CO4 CO5 CO6 ഒരു ടെസ്റ്റും ഉൾക്കൊള്ളുന്നില്ല രണ്ട് ടെസ്റ്റുകൾ ടെസ്റ്റ് 1 മൂന്ന് സിഒകളെ ഉൾക്കൊള്ളുന്ന ടെസ്റ്റ് 2 രണ്ട് സിഒകളെ ഉൾക്കൊള്ളുന്നു സിഒയുടെ വൈജ്ഞാനിക നിലയും പട്ടികയിൽ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് 1 ൽ CO1 ന് നമുക്ക് 5 മാർക്ക് മൂല്യമുള്ള ചോദ്യങ്ങളുണ്ട്സമാനമായി CO2 5 മാർക്കിന് CO3 5 മാർക്കിന് അതായത് ഇവിടെ ടെസ്റ്റ് 15 മാർക്കിനുള്ളതാണ് CO4 ന് നമുക്ക് ടെസ്റ്റ് 2 ൽ 7 മാർക്കും സമാനമായി CO5 ന് 8 മാർക്കും ഉണ്ട് ഇവയെല്ലാം ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്ന അസ്സസ്സ്മെന്റ് പാറ്റേണിന്റെ ഭാഗമാണ് മാർക്കുകൾ തന്നെ ഉപവിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ടെസ്റ്റ് 1 ൽ CO1 ലെ 5 മാർക്കിൽ റിമമ്പർ തലത്തിൽ 2 മാർക്കും അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 3 മാർക്കും ഉണ്ടായിരുന്നു CO2 ന് എല്ലാ 5 മാർക്കും അണ്ടർസ്റ്റാൻഡ് തലത്തിലാണ് കൂടാതെ CO3 ന് 5 മാർക്കുകളും അപ്ലൈ തലത്തിലാണ് CO4 അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 2 മാർക്ക് അപ്ലൈ തലത്തിൽ 5 മാർക്ക് CO5 അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 2 മാർക്കും അപ്ലൈ തലത്തിൽ 6 മാർക്കും ഈ പാറ്റേൺ ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്നു ഈ മാർക്കുകളുടെ വിതരണം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ സിഒയുമായും കോഗ്നിറ്റീവ് ലെവലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മാർക്കുകൾ ടീച്ചർ തീരുമാനിച്ച ഒന്നോ അതിലധികമോ ഐറ്റങ്ങളിൽ വിതരണം ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് CO1 നായി റിമമ്പർ ലെവലിൽ നിന്ന് നമുക്ക് 2 മാർക്ക് ആവശ്യമാണ് ReferShde Time 2917 ഈ 2 മാർക്ക് എങ്ങനെ ലഭിക്കും 1 മാർക്ക് വീതം ഉള്ള രണ്ട് ചോദ്യങ്ങൾ രണ്ട് ഐറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചേക്കാം അതിനാൽ പട്ടികയിൽ നിങ്ങൾ CO1 നും റിമമ്പർ തലത്തിനും അനുബന്ധമായികാണുന്ന 2 മാർക്ക് യഥാർത്ഥത്തിൽ 1 മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് തികച്ചും അധ്യാപകന്റെ സ്വാതന്ത്ര്യവും അധികാരവുമാണ് പക്ഷേ ഇത് മുൻകൂട്ടി തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നേ ഉള്ളൂ അതുപോലെ CO1അണ്ടർസ്റ്റാൻഡ് ലെവൽ 3 മാർക്ക് അവ രണ്ട് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഒരു ചോദ്യത്തിന് 2 മാർക്കും മറ്റൊരു ചോദ്യത്തിന് 1 മാർക്കും ഉണ്ട് ഐറ്റം ബാങ്കിൽ നിന്ന് ശരിയായ ഐറ്റങ്ങൾ എടുക്കുന്നതിന് ഇത് ആവശ്യമാണ് അണ്ടർസ്റ്റാൻഡ് തലത്തിൽ നമ്മൾ CO1 നായി ഒരു ചോദ്യം രചിക്കുകയാണെങ്കിൽ നമ്മൾ 2 മാർക്ക് ഉള്ള ഒരു ഐറ്റവും 1 മാർക്ക് ഉള്ള മറ്റൊരു ഐറ്റവും എടുക്കേണ്ടതുണ്ട് ഇതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം CO CL എന്നിവ പ്രകാരം ഐറ്റവും മാർക്കും വിതരണം ചെയ്യേണ്ടതുണ്ട് ഇത് ഒരു ഉപകരണത്തിലേക്ക് ഒരു എൽഎംഎസിന് ഇലക്ട്രോണിക് ആയി നൽകാൻ കഴിയുമെങ്കിൽ അസ്സസ്സ്മെന്റ് ഉപകരണം സ്വയമേവ സൃഷ്ടിക്കാനും കഴിയും ഉദാഹരണത്തിന് CO2 ന് അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 5 മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ഈ 5 മാർക്ക് രണ്ട് ഐറ്റങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് 3 മാർക്കിന് ഒരു ഐറ്റം 2 മാർക്കിന് മറ്റൊരു ഐറ്റം അതുപോലെ നിങ്ങൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും പരിശോധിക്കാം ഉദാഹരണത്തിന് അപ്ലൈ തലത്തിൽ CO5 ന് നമുക്ക് 6 മാർക്ക് ഉൾക്കൊള്ളാൻ രണ്ട് ഐറ്റങ്ങൾ ആവശ്യമാണ് ഒരു ഐറ്റം 3 മാർക്കും മറ്റൊരു ഐറ്റം 3 മാർക്കും അതായത് CO5 ന് നമുക്ക് 3 മാർക്ക് വീതമുള്ള രണ്ട് ഐറ്റങ്ങൾ ആവശ്യമാണ് 5 മടങ്ങ് ഐറ്റം ബാങ്ക് സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് 3 മാർക്ക് വീതമുള്ള 10 ഐറ്റങ്ങൾ ആവശ്യമാണ് അതുകൊണ്ടാണ് നമുക്ക് മാർക്ക് അസ്സസ്സ്മെന്റ് ഐറ്റങ്ങളിലായി വിഭജിക്കേണ്ടത് അതുപോലെ CO4 നായി നിങ്ങൾ കണ്ടാൽ നമുക്ക് 3 മാർക്കിന്റെ ഒരു ഐറ്റം ആവശ്യമാണ് അതിന്റെ അഞ്ചിരട്ടിയായ ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്ലൈ തലത്തിൽ CO4 ന് അനുയോജ്യമായ 3 മാർക്കിന്റെ 5 ഐറ്റങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അതുപോലെ നമുക്ക് ഐറ്റം ബാങ്കിന്റെ ആവശ്യകതകൾ പരിഹരിക്കാനാകും അത് ആ പരിശോധനയ്ക്കുള്ള ഐറ്റം ബാങ്കിന്റെ ഘടനയും ആയിരിക്കും റിമമ്പർ തലത്തിൽ CO1 നായി നമുക്ക് 10 1 മാർക്ക് ചോദ്യങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റെല്ലാ സിഒകൾക്കും ഇതുപോലെ ഐറ്റം ബാങ്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് CO5 നായി നമുക്ക് 3 മാർക്ക് വീതമുള്ള രണ്ട് ഐറ്റങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ അഞ്ചിരട്ടി 10 എണ്ണം ആവശ്യമാണ് CO5 ന് സമാനമായി നമുക്ക് അപ്ലൈ തലത്തിൽ ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് ഓരോന്നിനും 3 മാർക്കു വീതമുള്ള 10 ഐറ്റങ്ങൾ ടെസ്റ്റുകൾക്കായുള്ള ഐറ്റം ബാങ്കിന്റെ ഘടനയെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ഇത് നൽകുന്നു കർശനമായ ഒരു നിയമം പാലിക്കേണ്ട ഒന്നുമില്ല 10 ന് പകരം നമുക്ക് 15 സൃഷ്ടിക്കാൻ കഴിയും അത് 20 ആകാം എന്നാൽ ഐറ്റത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഐറ്റം ബാങ്കിലെ ഐറ്റങ്ങളുടെ എണ്ണം കുറഞ്ഞത് 10 ആയിരിക്കണം നമ്മൾ വളരെയധികം പരിശ്രമിക്കുന്നതായി തോന്നുമെങ്കിലും ഇവ ഒരു തവണ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ മാത്രമല്ല ഉപയോഗങ്ങളും ഒരുപാടാണ് ഓരോ ഘട്ടത്തിലും അധ്യാപകർ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു കോഴ്സിന്റെ ധാരണ ഉള്ളടക്കം വിഷയം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക കഴിവുകൾ സന്ദർഭം മറ്റ് നിരവധി സന്ദർഭോചിതമായ ഘടകങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പുകൾ ഐറ്റം ബാങ്കിന്റെ ഘടനയെക്കുറിച്ച് കർക്കശതയില്ല അധ്യാപകന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇത് ചെയ്യേണ്ട രീതിയെ സൂചിപ്പിക്കുന്നു എല്ലാ കോഴ്സുകൾക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും തീർച്ചയായും ഒരേ ഘടന ബാധകമല്ല ഐറ്റം ബാങ്കുകൾ സൃഷ്ടിക്കുന്നതിൽ ഒരു ഇൻസ്ട്രക്ടർക്ക് കാര്യമായ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്തവുമുണ്ട് ഇതെല്ലാം ഒരു ഐറ്റം ബാങ്കിന്റെ സൂചക സവിശേഷതകളാണ് SEE ക്കായുള്ള ഐറ്റം ബാങ്ക് SEE കൂടുതൽ ഘടനാപരമാണ് കാരണം ഇത് സാധാരണയായി സ്ഥാപനങ്ങളിലുടനീളം ഉണ്ട് എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കുള്ള SEE യുടെ രണ്ട് പ്രശസ്ത ഘടനകളെക്കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഒരെണ്ണത്തിൽ 20 വീതവും മറ്റൊന്നിൽ 16 വീതവും പേപ്പർ ക്രമീകരണം അടിസ്ഥാനപരമായി ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് സർവകലാശാലാ തലത്തിലാണ് സംഭവിക്കുന്നത് പേപ്പർ സെറ്റർ ഐറ്റം ബാങ്ക് ഉപയോഗപ്പെടുത്തണം കൂടാതെ മൂന്നോ നാലോ ഐറ്റങ്ങൾക്കായി 20 മാർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള തിരഞ്ഞെടുപ്പും അവർക്കുണ്ട് ആദ്യ ചോദ്യത്തിന് എ ബി സി ഡി എന്നീ നാല് ഉപവിഭാഗങ്ങൾ വരാം ഈ നാല് ഉപവിഭാഗങ്ങളിലുടനീളം മാർക്ക് വിതരണം ഉണ്ടാകാം അതിന് അധ്യാപകന് സ്വാതന്ത്ര്യമുണ്ട് ചില സ്ഥാപനങ്ങൾക്ക് ഇവയെക്കുറിച്ച് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ട് ടയർ 1 സ്ഥാപനങ്ങളിൽ അധ്യാപകൻ തന്നെ ഇത് ചെയ്യണം സാമ്പിൾ ഘടനയിൽ നൽകിയിട്ടുള്ളതിനേക്കാൾ അഞ്ചിരട്ടി ഐറ്റങ്ങൾ ഉപയോഗിച്ച് ഐറ്റം ബാങ്കുകൾ വീണ്ടും രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ രണ്ട് സിഒകളുണ്ട് CO1 CO2 ഇവ രണ്ടും ആദ്യ ചോദ്യത്തിൽ ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ ചോദ്യത്തിൽ CO3 മൂന്നാമത്തെ ചോദ്യത്തിൽ CO4 നാലാമത്തെ ചോദ്യത്തിൽ CO5 അഞ്ചാമത്തെ ചോദ്യത്തിൽ CO6 എന്നിവ ഉൾക്കൊള്ളുന്നു ആകെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആദ്യ ചോദ്യം രണ്ട് സിഒകളെ ഉൾക്കൊള്ളുന്നു ബാക്കി ചോദ്യങ്ങൾ ഒരു സിഒ വീതം ഉൾക്കൊള്ളുന്നു ചോയ്സ് ഇന്റെർണലാണ് CO1 ന് അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 6 മാർക്ക് നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അണ്ടർസ്റ്റാൻഡ് തലത്തിൽ മറ്റൊരു ചോദ്യത്തിന് 4 മാർക്ക് CO1 അണ്ടർസ്റ്റാൻഡ് തലത്തിലാണ് അത് രണ്ട് ഐറ്റങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തപ്പെടുന്നു രണ്ടും അണ്ടർസ്റ്റാൻഡ് തലത്തിൽ ഒന്ന് 6 മാർക്കിന് മറ്റൊന്ന് 4 മാർക്കിൽ അതുപോലെ തന്നെ ഇതിനുള്ള ബദലിന് അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 6 മാർക്കും വീണ്ടും അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 4 മാർക്കും ഉണ്ട് നമുക്ക് രണ്ട് ഐറ്റങ്ങൾ ആവശ്യമാണ് 6 മാർക്കിന്റെ ഒരു ഐറ്റം 4 മാർക്കിന്റെ മറ്റൊരു ഐറ്റം സമാനമായി നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഉദാഹരണത്തിന് അപ്ലൈ തലത്തിലുള്ള CO6 എടുക്കുക നമുക്ക് ആകെ 20 മാർക്ക് ഉണ്ട് അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 4 മാർക്കിന്റെ ഒരു ചോദ്യം അപ്ലൈ തലത്തിൽ 8 മാർക്ക് വീതം ഉള്ള രണ്ടു ചോദ്യവും ഇങ്ങനെയാണ് SEE ഇൻസ്ട്രുമെന്റ് ഘടന നിർണ്ണയിക്കുന്നത് അത് ഐറ്റം ബാങ്കിൽ എത്ര ഐറ്റങ്ങളുണ്ടെന്ന് ഏകദേശം സൂചിപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയും ഐറ്റം ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്നു രീതി വളരെ പ്രധാനമായി എല്ലാ ഐറ്റങ്ങളും ഭാഷയ്ക്കായി അവലോകനം ചെയ്യേണ്ടതുണ്ട് ഭാഷ എല്ലായ്പ്പോഴും മോശമാണ് അല്ലെങ്കിൽ ഒരേപോലെ നല്ലതാണെന്നല്ല ഭാഷ ശരിയാണെന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ഐറ്റങ്ങളിലും സാങ്കേതിക കൃത്യതയിലും ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് ആവശ്യമായ സമയത്തിലും അവ്യക്തതകളൊന്നുമില്ല എന്നുറപ്പാക്കണം അവലോകന പ്രക്രിയ നടത്തേണ്ടത് അത്യാവശ്യമാണ് എല്ലാ ഐറ്റങ്ങളും അനുബന്ധ സിഒകൾ കോഗ്നിറ്റീവ് ലെവലുകൾ മാർക്കുകൾ എന്നിവ ഉപയോഗിച്ച് ടാഗുചെയ്യേണ്ടതാണ് മാത്രമല്ല നിങ്ങൾക്ക് അവ ബുദ്ധിമുട്ടുള്ള ലെവലിൽ ടാഗുചെയ്യാൻ കഴിയുമെങ്കിൽ അത് വളരെ സൌകര്യപ്രദമായിരിക്കും അപ്പോൾ ചോയിസിലുള്ള ചോദ്യങ്ങൾ രണ്ടും ഒരേ ബുദ്ധിമുട്ടുള്ള തലത്തിലാണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും നമുക്ക് ഒരു ചോദ്യമുണ്ടെങ്കിൽ അത് ഒരു ഓർ ചോദ്യമാണെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു ചോദ്യവുമുണ്ട് രണ്ടും ഒരേ സിഒയിൽപ്പെട്ടതാണെങ്കിൽ രണ്ടും ഒരേ ബുദ്ധിമുട്ടുള്ള തലത്തിലാണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും അപ്പോൾ തിരഞ്ഞെടുപ്പിന് കൂടുതൽ അർത്ഥമുണ്ടാകും ഐറ്റം ബാങ്കുകൾ അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു പഠന മാനേജുമെന്റ് സംവിധാനവും ഉപയോഗിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഇത് സ്വമേധയാ ചെയ്യുകയാണെങ്കിലും അത് സൌകര്യപ്രദമാണ് അതിനാൽ ഐറ്റം ബാങ്ക് മാനുവൽ ഉപയോഗത്തിനും ഇലക്ട്രോണിക് ഉപയോഗത്തിനും അനുയോജ്യമായിരിക്കണം ഐറ്റം ബാങ്ക് ചലനാത്മകമായി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് എല്ലാ വർഷവും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ 2 വർഷത്തിലും സ്ഥാപനത്തിന്റെ സൌകര്യത്തെ ആശ്രയിച്ച് ഏകദേശം 10 ശതമാനം ഐറ്റങ്ങൾ ഐറ്റം ബാങ്കിൽ നിന്ന് നീക്കംചെയ്യുകയും ശേഖരിച്ച് വക്കുകയും ചെയ്യാം ശേഖരിച്ച് വച്ച ഐറ്റങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടുവരാൻ കഴിയും അടിസ്ഥാനപരമായി അവ വലിച്ചെറിയപ്പെടുന്നില്ല പുതിയ ഐറ്റങ്ങളുടെ 10 ശതമാനം ചേർക്കുന്നു അതുവഴി ഐറ്റം ബാങ്ക് ചലനാത്മകമാവുകയും കാലാകാലങ്ങളിൽ വൈവിധ്യമാർന്ന ഐറ്റങ്ങൾ ലഭ്യമായിരിക്കുകയും വേണം നമുക്ക് ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ഐറ്റം ബാങ്ക് ഉണ്ടെങ്കിൽ ആവശ്യമായത്തിന്റെ 50 ഇരട്ടി ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ഭാഗം വിദ്യാർത്ഥികളെ കാണിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഏതുതരം ഐറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണ ലഭിക്കും അത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് സഹായകമാകും ഇത് നടക്കാൻ നമുക്ക് വലിയ ഒരു ഐറ്റം ബാങ്ക് ഉണ്ടായിരിക്കണം എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ തീർച്ചയായും ഐറ്റം ബാങ്കിന് വലുതാകും മതിയായ വലുപ്പമുള്ള ഒരു ഐറ്റം ബാങ്ക് നമുക്ക് ലഭിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഒരു മാതൃക ഭാഗം വിദ്യാർത്ഥികൾക്ക് കാണിച്ചുകൊടുക്കാൻ നമുക്ക് കഴിയും ഐറ്റം ബാങ്കുകൾ ഉള്ളതിന്റെ മറ്റൊരു നേട്ടമാണിത് സെഷന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാഴ്ച്ചപ്പാടുകൾ മാറുന്നു യഥാർത്ഥത്തിൽ നേരത്തെ ഐറ്റം ബാങ്കുകളെ മിക്ക ഇൻസ്ട്രക്ടർമാരും വെറുപ്പോടെയാണ് കണ്ടിരുന്നത് ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറയ്ക്കുമെന്ന് അവർ വിശ്വസിച്ചു അവ സ്വീകാര്യമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അധ്യാപകരും വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റർമാരും നന്നായി കൈകാര്യം ചെയ്ത ഐറ്റം ബാങ്കുകളുടെ ഉപയോഗക്ഷമത കാണാൻ തുടങ്ങി ഇത് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യമാണ് ഐറ്റം ബാങ്ക് സൃഷ്ടിക്കൽ എല്ലായ്പ്പോഴും ഒരു ഗ്രൂപ്പ് ശ്രമമായിരിക്കണം സർവ്വകലാശാലാ തലത്തിൽ നല്ലതും വലുതുമായ ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്നതിന് വളരെയധികം പരിശ്രമവും ഏകോപനവും ആവശ്യമാണ് എന്നാൽ ഗുണങ്ങൾ ധാരാളമാണ് സെമസ്റ്റർ എൻഡ് പരീക്ഷാ ഉപകരണങ്ങൾ പോലും വർഷങ്ങളായി നല്ല നിലവാരമുള്ളതും ഗുണനിലവാരമുള്ളതായിരിക്കും ഐറ്റം ബാങ്കുകളുടെ നടത്തിപ്പിനായി സോഫ്റ്റ്വെയർ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും മികച്ച നിലവാരമുള്ള വിലയിരുത്തൽ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതും ഫാക്കൽറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗങ്ങൾ എന്നിവയുടെ ഭാരം കുറയ്ക്കും കൂടാതെ ധാരാളം പ്രയോജനങ്ങളും ഞാൻ സൂചിപ്പിച്ചതുപോലെ അസ്സസ്സ്മെന്റ് പാറ്റേൺ ഉപകരണങ്ങളുടെ ഘടന ഐറ്റം ബാങ്കുകൾ അവയെല്ലാം സൂചകങ്ങൾ മാത്രമാണ് കോഴ്സുകളുടെ യഥാർത്ഥ സ്വഭാവം അധ്യാപകരുടെ വീക്ഷണം അവയെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്മിൽ കോഴ്സുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയ്ക്കൊന്നും ഒരു നിശ്ചിത സ്വഭാവം ലഭിച്ചിട്ടില്ല അവ കുറിക്കപെട്ടതല്ല ഓരോ സ്ഥാപനവും അസ്സസ്സ്മെന്റിനായി അതിന്റേതായ പൊതു ഘടനകൾ ആവിഷ്കരിക്കണം അസ്സസ്സ്മെന്റ് രൂപകൽപ്പന ചെയ്യുന്നതിന് ചില പ്രക്രിയകൾ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം വ്യായാമം നിങ്ങളുടെ സ്വന്തം കോഴ്സിനായി നിങ്ങളുടെതായ അനുമാനങ്ങൾ വച്ച് ക്വിസുകൾ അസൈൻമെന്റുകൾ ടെസ്റ്റ് S E E എന്നീ ഐറ്റം ബാങ്കുകൾക്കായി ഘടനകൾ രൂപകൽപ്പന ചെയ്യുക ഈ വ്യായാമങ്ങളുടെ ഫലങ്ങൾൽ tale iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി ഇതോടെ നമ്മൾ ഡിസൈൻ ഘട്ടം പൂർത്തിയാക്കി ഡെവലപ്മെന്റ് ഘട്ടത്തിലെ ഉപ പ്രക്രിയകൾ മനസ്സിലാക്കുന്നതാണ് അടുത്ത യൂണിറ്റിന്റെ ഔട്ട്കം നന്ദി നമ്മൾ വീണ്ടും കാണും